നമസ്കാരം TALE ന്റെ മൊഡ്യൂൾ 2 ലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗവും TALE ന്റെ മൊഡ്യൂൾ 1ൽ പങ്കെടുത്തിട്ടുണ്ടാവും ഇത് മൊഡ്യൂൾ 1ന്റെ തുടർച്ചയായുള്ള മൊഡ്യൂൾ 2 ആണ് NBA Accreditation ൻറെ പശ്ചാത്തലത്തിൽ അധ്യാപകരെ സഹായിക്കുന്നതിനും എഞ്ചിനീയറുടെ നല്ല സ്വഭാവസവിശേഷതകൾ അവരുടെ കോഴ്സുകൾ ആസൂത്രണം ചെയ്യാനും നടത്താനും സഹായിക്കുന്ന ഒരു കോഴ്സാണ് TALE TALE മൊഡ്യൂൾ 2 യൂണിറ്റ് 1 നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ NBA അക്രഡിറ്റേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്നിവ പരിശോധിക്കാൻ പോകുന്നു എഞ്ചിനീയറിംഗ് അദ്ധ്യാപകരെന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇത് പരിചിതമാണ് പക്ഷേ നമ്മൾ ഒരു പ്രത്യേക ശ്രേണിയിൽ ഇവ നോക്കുന്നതിന് കുറച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കും കാരണം ചില പദങ്ങൾ അടുത്തിടെയുള്ളതാണ് വ്യത്യസ്ത ഫാക്കൽറ്റി അംഗങ്ങൾ വ്യത്യസ്ത കാര്യങ്ങൾ അർത്ഥമാക്കുന്നതിന് ഈ പദങ്ങൾ ഉപയോഗിച്ചേക്കാം TALE എന്താണ് ചെയ്യുന്നത് TALE എല്ലാ നാല് മൊഡ്യൂളുകളും കൊണ്ട് ബിരുദ സമയത്ത് അവരുടെ വിദ്യാർത്ഥികൾക്ക് നല്ല എഞ്ചിനീയർമാരാകാൻ സഹായിക്കുന്നതിന് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നത് ലക്ഷ്യമാക്കുന്നു അതിനാൽ ഇത് " second order input" തരത്തിലുള്ള കാര്യമാണ് ഈ കോഴ്സ് അധ്യാപകരെ പ്രാപ്തരാക്കുന്നു അതുവഴി അവരുടെ വിദ്യാർത്ഥികളെ നല്ല എഞ്ചിനീയർമാരാകാൻ സഹായിക്കുന്നു കോഴ്സ് നാല് മൊഡ്യൂളുകളായി വിഭാവനം ചെയ്തിരിക്കുന്നു ഒന്നാമത്തേത് പഠന ഫലങ്ങൾ നോക്കുന്നു രണ്ടാമത്തേത് കോഴ്സ് രൂപകല്പനയാണ് മൂന്നാമത്തേത് നിർദ്ദേശവും നാലാമത്തെ മൊഡ്യൂൾ അക്രഡിറ്റേഷനുമാണ് NPTEL ഫോർമാറ്റ് അനുസരിച്ച് ഓരോ മൊഡ്യൂളും ഒരു ക്രെഡിറ്റ് ഉൾക്കൊള്ളുന്നു ഓരോ മൊഡ്യൂളും അര മണിക്കൂർ വീഡിയോ പ്രഭാഷണങ്ങളുടെ 20 യൂണിറ്റുകളായി ചെയ്യപ്പെടുന്നു ഓരോ യൂണിറ്റിനും ഒരു കൂട്ടം പരിശീലനങ്ങൾ ഉണ്ടാകും കൂടാതെ ഓരോ ആഴ്ചയും ഒരു assignment അല്ലെങ്കിൽ ഒരു quiz ഉണ്ടായിരിക്കും തീർച്ചയായും അവസാനം നിങ്ങൾ എല്ലാവരും ഒരു പരീക്ഷ എഴുതേണ്ടതുണ്ട് അത് ഒരു ഗ്രേഡും സർട്ടിഫിക്കറ്റും നൽകുന്നതിലേക്ക് നയിക്കും മൊഡ്യൂൾ 1 ൽ നമ്മൾ അവതരിപ്പിച്ച TALE ൻറെ ഘടന നമുക്ക് നോക്കാം അതേ ഘടന ഇവിടെ ആവർത്തിക്കുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ TALE ന് നാല് മൊഡ്യൂളുകൾ ഉണ്ട് മൊഡ്യൂൾ 1 പഠന ഫലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിനെ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നു നാം ഇപ്പോൾ കൃത്യമായി അവലോകനം ചെയ്തതെന്താണെന്ന് നമ്മൾ കാണും മൊഡ്യൂൾ 2 കോഴ്സ് ഡിസൈനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ അദ്ധ്യാപകനും അവരുടെ കോഴ്സിൽ ചെയ്യേണ്ടത് എന്താണ് ഞാൻ എന്റെ കോഴ്സ് നന്നായി രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ എന്റെ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കും ഈ കോഴ്സ് രൂപകൽപ്പന ADDIE ന്റെ ചട്ടക്കൂടിൽ അവതരിപ്പിച്ചിരിക്കുന്നു അത് മൊഡ്യൂൾ 2 ന്റെ പിന്നീടുള്ള യൂണിറ്റുകളിൽ നമ്മൾ വിശദീകരിക്കും മൊഡ്യൂൾ 3 ൽ നമ്മൾ നിർദ്ദേശങ്ങളെ പറ്റി നോക്കും നിങ്ങളുടെ instruction നിങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം അതായത് വിദ്യാർത്ഥികളുടെ പഠന അനുഭവങ്ങൾ ആസൂത്രണം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്നത് അനുബന്ധ സിദ്ധാന്തങ്ങളെക്കുറിച്ചും അത് എങ്ങനെ അവതരിപ്പിക്കാമെന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും മൊഡ്യൂൾ 4 അക്രഡിറ്റേഷനാണ് ഇപ്പോൾ ഓരോ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമും നിർബന്ധം ഇല്ലെങ്കിലും എന്നാൽ അവരിൽ ഭൂരിഭാഗവും NBA അക്രഡിറ്റേഷനായി പോകുന്നു മാത്രമല്ല എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും NAAC അക്രഡിറ്റേഷനായി പോകുന്നു നാലാമത്തെ മൊഡ്യൂളിൽ അക്രഡിറ്റേഷൻ പ്രക്രിയകൾ നാം പരിശോധിക്കും എല്ലാ പദങ്ങളും TALE മൊഡ്യൂൾ 1 ൽ ചെയ്ത എല്ലാ കാര്യങ്ങളും TALE മൊഡ്യൂൾ 2 ന്റെ മുന്നുപാധികളാണ് അതിനാൽ TALE മൊഡ്യൂൾ 1 ൽ അഭിസംബോധന ചെയ്തവയിൽ അധികവും നമ്മൾ ആവർത്തിക്കാൻ പോകുന്നില്ല മൊഡ്യൂൾ 1 ൽ നാം outcome based education ൻറെ സ്വഭാവം മനസ്സിലാക്കി അതിനോടൊപ്പം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന് ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് ബിരുദ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളും ഫലങ്ങളും കാരണം നമ്മുടെ ചട്ടക്കൂട് എല്ലായ്പ്പോഴും NBA അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ AICTE നൽകിയ ചട്ടക്കൂടാണ് Anderson Bloom Vincenti taxonomy ഉം പഠനത്തിന്റെ മൂന്ന് ഡൊമെയ്നുകളായ കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടോർ ഡൊമെയ്നുകൾ എന്നിവയും നാം മനസ്സിലാക്കി മൂന്ന് ഡൊമെയ്നുകളുടെ സവിശേഷതകളും പ്രത്യേകിച്ച് Anderson Bloom Vincenti taxonomy യിലെ കോഗ്നിറ്റീവ് ഡൊമെയ്നിൻറെ നമ്മൾ മനസ്സിലാക്കി ഉപവിഭാഗങ്ങളായ program outcomes നെയും program specific outcomes നെയും അഭിസംബോധന ചെയ്യുന്ന എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ ഒരു കോഴ്സിന്റെ outcomes നാം എഴുതി അതിനാൽ മൊഡ്യൂൾ 1 ന്റെ അവസാനത്തിൽ നമ്മൾ ഒരു കോഴ്സിന്റെ outcomes മാത്രമല്ല അത് എങ്ങനെ എഴുതാമെന്നും ഈ outcomes ൻറെ നേട്ടം എങ്ങനെ അളക്കാമെന്നും നമ്മൾ എഴുതി TALE ന്റെ മൊഡ്യൂൾ 2 3 4 ന്റെ അവസാനത്തിൽ കൂടുതലും അധ്യാപകരാകാൻ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ADDIE യുടെ നിർദ്ദേശ രൂപകൽപ്പന ചട്ടക്കൂടിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യാൻ കഴിയണം ADDIE ന്റെ ചട്ടക്കൂടിനെക്കുറിച്ച് നമ്മൾ മൊഡ്യൂൾ 2 ൽ വിശദീകരിക്കും കൂടാതെ കോഴ്സ് outcomes ഉ മായി മികച്ച വിന്യാസമുള്ള ഡിസൈൻ വിലയിരുത്തലും മൊഡ്യൂൾ 2 ൽ നമ്മൾ ADDIE യെ പറ്റി നോക്കും ഇതിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് - വിശകലനം രൂപകൽപ്പന വികസനം നടപ്പിലാക്കൽ വിലയിരുത്തൽ ADDIE യുടെ അഞ്ച് ഘട്ടങ്ങളിലും എങ്ങനെ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് നമ്മൾ പരിശോധിക്കും കൂടാതെ TALE മൊഡ്യൂൾ 2 ന്റെ പങ്കാളികൾക്ക് കോഴ്സ് outcomes ഉമായി മികച്ച വിന്യാസമുള്ള design assessment രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മൊഡ്യൂൾ 2 ന്റെ ഫലങ്ങൾ ഇവയാണ് മൊഡ്യൂൾ 3 കോഴ്സ് outcomesഉം കഴിവുകളും നേടുന്നതിനുള്ള മെറിലിന്റെ തത്ത്വങ്ങൾ Merrill's principles പിന്തുടർന്ന് കോഴ്സ് outcomes വിലയിരുത്തൽ നിർദ്ദേശം എന്നിവയ്ക്കിടയിൽ മികച്ച വിന്യാസം ഉറപ്പാക്കുന്നു മൊഡ്യൂൾ 4 ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എൻബിഎ അക്രഡിറ്റേഷനായി തയ്യാറെടുക്കുക കൂടാതെ സ്ഥാപന തലത്തിൽ എൻഎഎസി അക്രഡിറ്റേഷനും തയ്യാറാകുക എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ജോലി ചെയ്യുന്ന അധ്യാപകർ അധ്യാപകർ ആകാൻ ആഗ്രഹിക്കുന്നവർ വിദ്യാഭ്യാസ സാങ്കേതികവിദ്യയിൽ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്ന ബിരുദ വിദ്യാർത്ഥികൾ അതേപോലെ കോർപ്പറേറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർക്ക് വിദ്യാഭ്യാസ സാങ്കേതികവിദ്യകളും പരിശീലന പരിപാടികളും വാഗ്ദാനം ചെയ്യുന്ന കമ്പനികൾക്കും ഈ കോഴ്സ് ഉപയോഗപ്രദമാകും കോർപ്പറേറ്റുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യാനും നടത്താനും ശ്രമിക്കുന്ന നിരവധി കമ്പനികൾ ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ വരുന്നുണ്ട് കുറച്ച് പദങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തത ആവശ്യമാണ് ആളുകൾ സാധാരണയായി മറ്റ് വാക്കുകൾ പകരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമ്മൾ നോക്കും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം എഞ്ചിനീയറിംഗ് പ്രോഗ്രാം എന്നത് നാലുവർഷത്തെ അദ്ധ്യാപന പഠന പ്രവർത്തനമാണ് അത് പന്ത്രണ്ടാം ക്ലാസ് ബിരുദധാരികൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദത്തിന് അർഹത നൽകുന്നു ഇന്നത്തെ സന്ദർഭത്തിൽ നിങ്ങൾ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും ഒരു ഔ പചാരിക ബിരുദത്തിലേക്ക് അടയാളപ്പെടുത്തുന്നു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ നൽകേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട് ഇത് നമ്മൾ ഇതിനകം മൊഡ്യൂൾ 1 ൽ സൂചിപ്പിച്ചിരിന്നു വിജ്ഞാന നൈപുണ്യവും മനോഭാവവും നൽകുക ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകൾ നേടുന്നതിന് പന്ത്രണ്ടാം ക്ലാസ് ബിരുദധാരികൾക്ക് സൌകര്യമൊരുക്കുക ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകൾ ആരാണ് നിർവചിക്കുന്നത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അവരെ തിരിച്ചറിയുന്നു അവർ 'program outcomes' എന്ന വാക്ക് ഉപയോഗിക്കുന്നു അതായത് program outcomes ഒരു നല്ല എഞ്ചിനീയറുടെ സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നു ഇത് കാലാകാലങ്ങളിൽ അല്പം മാറിക്കൊണ്ടിരിക്കും നിങ്ങൾ ഒരിക്കൽ program outcomes എഴുതുകയും അവ ശാശ്വതമാവുകയും ചെയ്യുന്നതുപോലെ അല്ല സാങ്കേതികവിദ്യയിൽ എഞ്ചിനീയർമാരുടെ പങ്ക് മാറുന്നതിനനുസരിച്ച് program outcomes ന്റെ സ്വഭാവവും കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ എല്ലാ അധ്യാപകർക്കും ഇത് വളരെ വ്യക്തമായിരിക്കേണ്ടതുണ്ട് AICTE നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും വേണം ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ് AICTE അവർ ഇവിടെ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അവ പ്രോഗ്രാം ശീർഷകവുമായി ബന്ധപ്പെട്ടതാണ് അതിനർത്ഥം നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ശീർഷകം ഉപയോഗിക്കാമെന്നാണ് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബി ടെക് അതിനാൽ നമ്മൾ ഏത് ബിരുദം വാഗ്ദാനം ചെയ്യുന്നുവെങ്കിലും പൊതുവായി AICTE അത് അംഗീകരിക്കേണ്ടതുണ്ട് തീർച്ചയായും സമയാസമയങ്ങളിൽ AICTE ഉം പ്രോഗ്രാം ശീർഷകങ്ങളുടെ പട്ടികയിൽ മാറ്റം വരുത്താറുണ്ട് Outcome based education പ്രോഗ്രാമിന്റെ ദൈർഘ്യം സെമസ്റ്റർ സംവിധാനം പ്രോഗ്രാം രൂപകൽപ്പന ചെയ്യേണ്ട ക്രെഡിറ്റുകളുടെ എണ്ണം പാഠ്യപദ്ധതി ഘടകങ്ങൾ ഗ്രേഡിംഗ് ഭൌതിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഇ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവയാണ് നിങ്ങൾ അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദങ്ങൾ നൽകുന്നതിനും യോഗ്യത നേടാനും AICTE നിങ്ങളെ അനുവദിക്കില്ല ഇവ കൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അവ റിസർവേഷനുകൾ ഫീസ് ഘടന പ്രവേശനം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇനിയും നിരവധി കാര്യങ്ങളുണ്ടാകാം പക്ഷേ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രധാന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവയാണ് ഇന്ത്യയിലെ മിക്ക കോളേജുകളും ചില സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വകാര്യ സർവ്വകലാശാലകളോ സർക്കാർ സ്ഥാപിച്ചതോ ആയ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം ചില കേസുകൾ ഒഴികെ ബിരുദങ്ങൾ നൽകുന്നത് കോളേജുകൾ അല്ല സർവകലാശാലകളാണ് പ്രവേശനം പാഠ്യപദ്ധതി പരീക്ഷകൾ വിലയിരുത്തലുകൾ ഫലപ്രഖ്യാപനം എന്നിവയുമായി ബന്ധപ്പെട്ട് അനുബന്ധ സർവകലാശാലയ്ക്ക് മാർഗ്ഗനിർദ്ദേശങ്ങളും ചില നിയന്ത്രണങ്ങളും ഉണ്ടാകും എല്ലാ അധ്യാപകർക്കും അറിയാവുന്നത് പോലെ എ ഇ സംസ്ഥാന സർക്കാർ അനുബന്ധ സർവകലാശാല എന്നിവ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷേ അവ അനുബന്ധ ചട്ടക്കൂടിൽ അവർ മനസ്സിലാക്കണം പ്രോഗ്രാമിനായി എൻബിഎ അക്രഡിറ്റേഷൻ നേടുന്നത് നിർബന്ധമല്ലെങ്കിലും ഭൂരിപക്ഷം നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ചു ശതമാനം പറയാം എൻബിഎ അക്രഡിറ്റേഷനായി പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അത് ആവശ്യകതകളിലൊന്നായി എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദർശനത്തെക്കുറിച്ചും ദൌത്യത്തെക്കുറിച്ചും എൻബിഎ സംസാരിക്കുന്നു അതിനർത്ഥം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ദർശനവും ദൌത്യവും എഴുതേണ്ടതുണ്ട് ആ vision and mission എന്തായിരിക്കണമെന്ന് അത് പറയുന്നില്ല പക്ഷേ അവർ സ്ഥാപനത്തിന്റെ vision and mission വകുപ്പിന്റെ vision and mission പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പ്രോഗ്രാം ഫലങ്ങൾ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ കോഴ്സ് ഫലങ്ങൾ നിങ്ങൾ എങ്ങനെ നേടാം സിഒകൾ പിഒകൾ പിഎസ്ഒകൾ കൂടാതെ സാധാരണയായി ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുകയും നിങ്ങൾ തുടർച്ചയായി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതിനും നടത്തുന്നതിനും എൻബിഎ അക്രഡിറ്റേഷന്റെ എല്ലാ വശങ്ങളും ഇവയാണ് Vision and mission കൂടാതെ ബാക്കി കാര്യങ്ങൾ കുറഞ്ഞത് പദാവലി അവ എന്തൊക്കെയാണ് അവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയവ നാം മൊഡ്യൂൾ 1 ൽ ചർച്ച ചെയ്തതാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ 2015 ന് മുമ്പുള്ള അതായത് ഒബിഇ അവതരിപ്പിക്കുന്നതിനുമുമ്പ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അനൌപചാരികമായി ചില ധാരണകളുണ്ടായിരുന്നുവെങ്കിലും എഞ്ചിനീയറിംഗ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്യുന്നതിനായി ഏതെങ്കിലും ഏജൻസിയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഔപചാരിക ചട്ടക്കൂടുകളൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന ഏതെങ്കിലും സ്ഥാപനം നൽകിയ ഒരു പ്രമാണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പ്രോഗ്രാം ഫലങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു വാക്കെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് രേഖകളില്ല ചട്ടക്കൂട് ഒന്നുകിൽ കാണില്ല അല്ലെങ്കിൽ അനൌപചാരികമായിരിക്കും ഇപ്പോൾ നമുക്ക് എല്ലാം ഒരു കടലാസിൽ പ്രസ്താവിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു പ്രോഗ്രാമും കോഴ്സും രൂപകൽപ്പന ചെയ്യുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചട്ടക്കൂടിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകും പ്രോഗ്രാം അല്ലെങ്കിൽ കോഴ്സ് തലത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇത് ഒരു സ്വയംഭരണ സ്ഥാപനത്തിലെ ഫാക്കൽറ്റി അംഗത്തിന് ഒരു കോഴ്സിന്റെ രൂപകൽപ്പനയും പെരുമാറ്റവും സംബന്ധിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന നിലപാടിലേക്ക് നയിക്കും ഒരാൾ ഒന്നിനും ഉത്തരം നൽകേണ്ടതില്ല ഞാൻ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് എന്റെ സിലബസ് രൂപകൽപ്പന ചെയ്ത് ഏറ്റവും മികച്ചതായി ഞാൻ കരുതുന്ന രീതിയിൽ വാഗ്ദാനം ചെയ്യുന്നു വിഷയ വീക്ഷണകോണിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളിൽ നിന്നോ ഈ ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ പോലും സമ്പൂർണ്ണ സ്വയംഭരണത്തിനുള്ള ഈ അവകാശവും ഒരു ചട്ടക്കൂടിന്റെ ആവശ്യകത ഇല്ലായ്മയും ഇപ്പോഴും ഭൂരിപക്ഷം ഫാക്കൽറ്റി അംഗങ്ങളുമായി തുടരുന്നു അതുകൊണ്ടാണ് ഒരു ചട്ടക്കൂടില്ലാതെ പ്രവർത്തിക്കുന്നത് ശീലമായതിനാൽ പല ഫാക്കൽറ്റി അംഗങ്ങൾക്കും ഏതെങ്കിലും ചട്ടക്കൂട് നൽകുന്നതിൽ അൽപ്പം തടസ്സം തോന്നാം നമ്മൾ ഇപ്പോൾ ആ വശം കാണും കോഴ്സുകളെ ഈ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പാഠ്യ ഘടകങ്ങളിൽ അടിസ്ഥാന ശാസ്ത്രങ്ങൾ ഉൾപ്പെടുന്നു എത്ര കോഴ്സുകൾ ഏതൊക്കെ കോഴ്സുകൾ എന്നത് ഒരു നിശ്ചിത പ്രോഗ്രാമിനെ ആശ്രയിച്ചിരിക്കും അത് എൻബിഎ അല്ലെങ്കിൽ എഐസിടിഇ പ്രസ്താവിച്ചിട്ടില്ല എന്നാൽ ഒരു അടിസ്ഥാന ശാസ്ത്ര ഘടകമുണ്ട് അടിസ്ഥാന ശാസ്ത്രം സാധാരണയായി ഭൌതികശാസ്ത്രം രസതന്ത്രം ഗണിതശാസ്ത്രം ജീവശാസ്ത്രം എന്നിവയാണ് ഹ്യൂമാനിറ്റീസ് ആന്റ് സോഷ്യൽ സയൻസസിൽ ഭാഷയും മാനേജ്മെന്റും മറ്റേതെങ്കിലും സോഷ്യൽ സയൻസ് വിഷയവും ഉൾപ്പെടും എഞ്ചിനീയറിംഗ് സയൻസസ് പ്രൊഫഷണൽ കോർ പ്രൊഫഷണൽ എലക്ടീവ് ഓപ്പൺ എലക്ടീവ്സ് ഒരു പ്രോജക്റ്റ് ഇവ വിശാലമായ പാഠ്യ ഘടകങ്ങളാണ് അതിനാൽ ആരെങ്കിലും ഒരു പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യുമ്പോഴെല്ലാം ആദ്യം ചെയ്യുന്നത് മുഴുവൻ പ്രോഗ്രാമിന്റെയും ക്രെഡിറ്റുകൾ ഈ പാഠ്യ ഘടകങ്ങൾക്ക് കീഴിൽ വിതരണം ചെയ്യുന്നു മൊത്തം പ്രോഗ്രാമിന്റെ എത്ര ക്രെഡിറ്റുകൾ അടിസ്ഥാന ശാസ്ത്രത്തിന് അനുവദിച്ചിരിക്കുന്നു പാഠ്യപദ്ധതിയിൽ ഈ വിഭാഗങ്ങളിലൊന്നിൽ ഒരാൾക്ക് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ചില കോഴ്സുകൾ ഉണ്ടാകും പക്ഷേ വളരെയധികം വിഭാഗങ്ങൾ സൃഷ്ടിക്കാനും കഴിയില്ല ചില സമയങ്ങളിൽ ഒരു പ്രത്യേക കോഴ്സ് 'എഞ്ചിനീയറിംഗ് സയൻസ്' അല്ലെങ്കിൽ 'ബേസിക് സയൻസ്' ൻറെ കീഴിൽ വരേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത് core ലേക്കും മറ്റും മാറ്റണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പ്രയാസം വരും അത്തരം പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും എന്നാൽ ഏഴ് ഔദ്യോഗിക വിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എല്ലാ കോഴ്സുകളും ഈ ഏഴ് വിഭാഗങ്ങളിലൊന്നിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എഐസിടിഇയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും ഒരു BE പ്രോഗ്രാമിന് ഏകദേശം 160 ക്രെഡിറ്റുകളുടെ ക്രെഡിറ്റ് ലോഡ് ഉണ്ടായിരിക്കും എന്ന് അതായത് ഇത് 160ൽ കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ കുറച്ച് കുറവോ ആകാം ഇതുവരെ ധാരാളം പ്രോഗ്രാമുകൾ 260 ക്രെഡിറ്റുകൾ വരെ കടലാസിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയുടെ ക്രെഡിറ്റ് നിർവചനം മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രോഗ്രാമുകളും 200 ക്രെഡിറ്റുകൾ വരെ പ്രവർത്തിക്കുന്നു സമീപകാലത്ത് അവ 160 ഇലോട്ട് മടങ്ങിവരുന്നത് കാണാം പല പ്രോഗ്രാമുകളും 160 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 5 160 പ്ലസ് 10 ലേക്ക് മടങ്ങി അവർ അതിനുള്ളിൽ വരാൻ ശ്രമിക്കുകയാണ് എൻബിഎ നിഷ്കർച്ചിട്ടുള്ള പിഒകൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിഷ്കർച്ചിട്ടുള്ള പിഎസ്ഒകൾ സർവകലാശാല AICTE യുജിസി എന്നിവയുടെ ആവശ്യകതകൾ എന്നിവയെ ആസ്പദമാക്കി ഈ ക്രെഡിറ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എത്രയുമാകട്ടെ അത് പാഠ്യ ഘടകങ്ങളിൽ വിതരണം ചെയ്യുന്നു ഇവ നിങ്ങൾക്കുള്ള പരിമിതികളാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിസ്ഥിതി അല്ലെങ്കിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഒരു കോഴ്സ് ഉണ്ടായിരിക്കണമെന്ന് യുജിസി പറയുന്നു ചില വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഭാഷയിൽ ഒരു കോഴ്സിലൂടെ കടന്നുപോകേണ്ടിവരുമെന്ന് ചിലപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കാം ചിലപ്പോൾ പ്രൊഫഷണൽ നൈതികതയെക്കുറിച്ച് പ്രത്യേകമായി തിരിച്ചറിഞ്ഞ ഒരു കോഴ്സും ഉണ്ടായിരിക്കണമെന്ന് ഒരു സർവകലാശാല നിർബന്ധിക്കാം അത്രത്തോളം ആവശ്യകതകൾ ഈ ഏജൻസികളിൽ നിന്നും വരാം നമ്മൾ പിഒകളെയും പിഎസ്ഒകളെയും കുറിച്ച് സംസാരിച്ചു പിഒകളെ എൻബിഎ നിഷ്കർഷിക്കുന്നു കൂടാതെ പിഎസ്ഒകളെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പഠന ബോർഡ് നിഷ്കർഷിക്കുന്നു കോഴ്സുകളുടെ അന്തിമ തിരഞ്ഞെടുപ്പ് ബോർഡ് ഓഫ് സ്റ്റഡീസ് നടത്തും നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഏഴ് വിഭാഗങ്ങൾക്ക് കീഴിൽ അവർ കോഴ്സുകൾ ഉൾപ്പെടുത്തണം 3 0 0 അല്ലെങ്കിൽ 3 1 0 3 0 1 എന്നിങ്ങനെ കോഴ്സുകൾ നൽകാം ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റിന് 0 0 12 അല്ലെങ്കിൽ 0 0 8 വഹിക്കാൻ കഴിയും പ്രോജക്റ്റിനായി അനുവദിച്ചിരിക്കുന്നത് എന്താണോ അത് നേരത്തെ കോഴ്സുകൾ അടയാളപ്പെടുത്തിയിരുന്നത് 100 മാർക്ക് 150 മാർക്ക് തുടങ്ങിയ മാർക്ക് കൊണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റുകളുടെ എണ്ണവും ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഗ്രേഡും അനുസരിച്ചാണ് സിബിസിഎസ് പദ്ധതി പ്രകാരം വിദ്യാർത്ഥിക്ക് തിരഞ്ഞെടുക്കാവുന്ന വിശാലമായ ശ്രേണിയിലുള്ള കോഴ്സുകൾ ഇലക്റ്റീവ് തിരഞ്ഞെടുക്കാൻ അവസരം ഉണ്ടായിരിക്കണം നിങ്ങൾ ഓർമ്മിക്കേണ്ട മറ്റൊരു വശം അദ്ധ്യാപന ആഴ്ചകളുടെ എണ്ണമാണ് നിങ്ങൾ അദ്ധ്യാപന ആഴ്ചകളെ പ്രവൃത്തി ആഴ്ചകളല്ല എന്ന് വിളിക്കുന്നുവെന്ന് ഓർക്കുക സാധാരണയായി 90 പ്രവൃത്തി ദിവസങ്ങൾ മിക്ക സെമസ്റ്ററുകളുടെയും മാനദണ്ഡമാണ് 90 ദിവസങ്ങളിലും നമ്മൾ പഠിപ്പിക്കുകയില്ല നാം നടത്തുന്ന internal tests ചില തയ്യാറെടുപ്പ് അവധി ദിവസങ്ങളുണ്ട് തുടർന്ന് നിങ്ങൾക്ക് അവസാന പരീക്ഷയും മറ്റും ഉണ്ട് അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു സെമസ്റ്ററിലെ അദ്ധ്യാപന ആഴ്ചകളുടെ എണ്ണം 14 മുതൽ 15 വരെയാണ് ഇത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും തൃപ്തികരമായി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന കോഴ്സിന്റെ ഉള്ളടക്കം ഈ നമ്പർ മനസ്സിൽ വച്ചുകൊണ്ട് തിരഞ്ഞെടുക്കണം ഞാൻ ഉള്ളടക്കം അനിശ്ചിതമായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കാരണം ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ ഞാൻ പഠിക്കേണ്ടതെല്ലാം പരിഗണിക്കുന്നു പക്ഷേ 14 മുതൽ 15 ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് ശരിയായ നീതി നടപ്പാക്കാൻ കഴിയില്ല ക്ലാസ് റൂം ഇടപെടലുകൾക്ക് ലഭ്യമായ ആഴ്ചകളുടെ എണ്ണം 14 അല്ലെങ്കിൽ 15 ആണെന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ് അതിനനുസരിച്ച് ഉള്ളടക്കം ക്രമീകരിക്കേണ്ടതുണ്ട് ക്രെഡിറ്റും സിലബസും ഒരു ക്രെഡിറ്റ് എന്നത് ഒരു സെമസ്റ്ററിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് റൂം സെഷൻ ഒരു സെമസ്റ്ററിൽ ആഴ്ചയിൽ ഒരു മണിക്കൂർ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൽ ആഴ്ചയിൽ രണ്ട് മണിക്കൂർ ലബോറട്ടറി ജോലികൾ ആകുന്നു ഇത് കർശനമായി പാലിക്കേണ്ടതുണ്ട് യുജിസി തലത്തിലും എഐസിടിഇ തലത്തിൽ ഇവയെല്ലാം ബാധകമാണ് ക്രെഡിറ്റിന്റെ ഈ നിർവചനത്തിൽ നിന്ന് ഒരു സ്ഥാപനവും കോളേജും വ്യതിചലിക്കരുത് ക്രെഡിറ്റുകളുടെ എണ്ണം കണക്കിലെടുത്ത് കോഴ്സിന്റെ സിലബസ് തിരിച്ചറിയേണ്ടതുണ്ട് ചില കോഴ്സുകൾ 2 0 0 ആണ് അല്ലെങ്കിൽ ചില കോഴ്സുകൾ 3 1 0 ആണ് ക്രെഡിറ്റുകളുടെ എണ്ണത്തിനെയും സാഹചര്യവും അനുസരിച്ച് ഇവിടെ സാഹചര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ നിലവാരം ഇൻഫ്രാസ്ട്രക്ചർ അഭിസംബോധന ചെയ്ത പിഒകൾ പരിഗണിക്കുന്ന വിഷയത്തിന്റെ സ്വഭാവം എന്നിവയാണ് വിഷയം വളരെയധികം ഗണിതശാസ്ത്രപരമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ സങ്കീർണ്ണമായ നടപടിക്രമങ്ങൾ കോഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്ന് ഉള്ളടക്കം ക്രമീകരിക്കേണ്ടത് വിഷയത്തിന് ആവശ്യമുള്ളതുകൊണ്ടല്ല കോഴ്സിന്റെ സിലബസ് ഈ പരിഗണനകളാൽ തീരുമാനിക്കേണ്ടതുണ്ട് വിശാലമായി നാം വിജ്ഞാന വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി കോഴ്സുകളെ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഹ്യുമാനിറ്റീസ് സോഷ്യൽ സയൻസസ് ബേസിക് സയൻസസ് എഞ്ചിനീയറിംഗ് സയൻസസ് എന്നിവയിലെ കോഴ്സുകൾ വസ്തുതാപരമായ ആശയപരമായ പ്രോസിഡറൽ മെറ്റാകോഗ്നിറ്റീവ് എന്ന നാല് പൊതുവിജ്ഞാന വിഭാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നു പ്രൊഫഷണൽ കോഴ്സിലെ കോഴ്സുകൾ പ്രൊഫഷണൽ ഇലക്റ്റീവ്സ് അടിസ്ഥാന വിന്യാസത്തിന്റെ നാല് വിൻസെന്റി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അടിസ്ഥാന ഡിസൈൻ തത്വങ്ങൾ മാനദണ്ഡങ്ങളും സവിശേഷതകളും പ്രായോഗിക പരിമിതികൾ ഡിസൈൻ ഉപകരണങ്ങൾ എന്നിവ നിങ്ങൾ ഓപ്പൺ എലക്ടീവുകളിലേക്ക് വരുമ്പോൾ ഓപ്പൺ എലക്ടീവ് ഡിസൈൻ ആദ്യ വിഭാഗത്തിലോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലോ ആകാം അത് കോഴ്സ് ഡിസൈനറിന് തിരഞ്ഞെടുക്കാം ഒരു കോഴ്സിന്റെ അവസാനം അവർക്ക് എന്ത് ചെയ്യാനാകുമെന്ന് വ്യക്തമാകുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നു ഇവ കോഴ്സ് outcomes ആയി എഴുതപ്പെടുന്നു അവർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമായുള്ള ഒരു വിന്യാസമായിരിക്കും വിലയിരുത്തൽ അവർ നേടാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നതിന് instructional activities രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നു ഒരു നല്ല കോഴ്സിന്റെ തത്വങ്ങളാണ് ഇവ ഈ മൊഡ്യൂളിന്റെ യൂണിറ്റ് 2 ൽ നല്ല പഠനം സുഗമമാക്കുന്നതിൽ കോഴ്സ് ഡിസൈനിന്റെ പങ്ക് എന്താണെന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോഴ്സ് രൂപകൽപ്പനയുടെ ഉദ്ദേശ്യവും ഇതാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി